അതിനാൽ അടുത്തത് ചിത്രം 17 ൽ കാണിച്ചിരിക്കുന്ന സർക്യൂട്ട് ആണ് ഇവിടെ ഇൻഡക്റ്റർ L1 L2 എന്നിവയിലൂടെയുള്ള ഇനിഷ്യൽ കറന്റ് സ്ഥാപിച്ചു ഇവിടെ ചില സോഴ്സ്സ് ഉണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാം സർക്യൂട്ട് ഞാൻ പിന്നീട് കാണിക്കും ഇവിടെ 2 ഇൻഡക്റ്ററുകൾ സമാന്തരമായി ആണ് ഉള്ളത് അതിനാൽ സ്വിച്ച് t 0 ൽ തുറന്ന് iL1 iL2 I L3 എന്നിവ ആ സമയത്തേക്ക് ഉള്ളത് നിർണ്ണയിക്കണം കപ്പാസിറ്റർ Rc വെച്ചുള്ള കോയിൽ പ്രോബ്ലെത്തിൽ ഈ രണ്ടു കപ്പാസിറ്ററുകളും ശ്രേണിയിലായിരുന്നു എന്നാൽ ഈ സാഹചര്യത്തിൽ 2 ഇൻഡക്റ്ററുകൾ സമാന്തരമായിരിക്കുമ്പോൾ സമാനമായ ഒരു പ്രശ്നം എടുക്കുന്നു ഇവിടെയും എന്തുകൊണ്ടാണ് ഇത് എടുത്തതെന്ന് ഒരു കേസ് മാത്രം അവസാനമായി ഫോറത്തിൽ എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അവിടെ ഞങ്ങൾ എല്ലാ ഉത്തരങ്ങളും നൽകും അതിനാൽ ഇത് വളരെ രസകരമായ ഒരു പ്രശ്നമാണ് മാത്രമല്ല സർക്യൂട്ട് നോക്കുക കറന്റ് iL1 iL2 ന്റെ ദിശയും മറ്റൊരു i3 ഉം തന്നിട്ടുണ്ട് കൂടാതെ ഇൻഡക്റ്ററിലൂടെ പോകുന്ന പ്രാരംഭ കറന്റും നൽകുന്നു 8 ആംപിയറും 4 ആംപിയറും ഇത് ആ സർക്യൂട്ടിലും അടയാളപ്പെടുത്തിയിരിക്കുന്നു ഇത് 8 ആമ്പിയർ ഇത് 4 ആമ്പിയർ ഈ ഇൻഡക്റ്റർ 5 ഹെൻറിയാണ് ഇത് 20 ഹെൻറിയാണ് പ്രശ്നത്തിൽ കാണിച്ചിരിക്കുന്ന സർക്യൂട്ടിൽ പ്രാരംഭ വൈദ്യുതധാരകളായ L1 L2 എന്നിവ ഉസോഴ്സ്സ് നിന്ന് ലഭിച്ചതാണ് എന്ന് കാണിച്ചിട്ടുണ്ട് സ്വിച്ച് t 0 ൽ തുറന്നിരിക്കുന്നു t 0 ന് iL1 iL2 i L3 എന്നിവ നിർണ്ണയിക്കേണ്ടതുണ്ട് ഇത് t 0 നായുള്ള iL1t iL2t i3t എന്നിവയാണ് സ്വിച്ച് t 0 ൽ തുറക്കുന്നു അതിനർത്ഥം ഈ സമയത്ത് സ്വിച്ച് തുറന്നു ഇപ്പോൾ ഇത് നോക്കൂ അതിനാൽ ഈ 5 ഹെൻറിയും 20 ഹെൻറിയും സമാന്തരമായി അതിനാൽ അത് ഒരു റെസിസ്റ്റർ പോലെയാണ് അതിനാൽ അതിന്റെ ഇക്വിവാലെന്റ് റെസിസ്റ്റൻസ് കണ്ടു പിടിക്കേണ്ടതുണ്ട് അതെ പോലെ ഇക്വിവാലെന്റ് ഇൻഡക്റ്റൻസ് കണ്ടെത്തേണ്ടതുണ്ട് ഇവിടെ 5 Ω ഹെൻറിയും 20 ഹെൻറി ഇൻഡക്ടറുകളും സമാന്തരമാണ് അതിനാൽ Leq 4 ഹെൻറി ആയിരിക്കും ഇൻഡക്റ്റർ 1 നും ഇൻഡക്റ്റർ 2 നും iL10 iL20 8 ആമ്പിയറും 4 ആമ്പിയറും ആയിരിക്കും പ്രാരംഭ കറന്റ് ഇവിടെ ഇത് iL1 0 8 ആമ്പിയർ iL2 0 4 ആമ്പിയർ എന്നിവയാണ് അതിനാൽ ഇക്വിവാലെന്റ് ഇൻഡക്റ്റർ കറന്റ് iLeq എന്നാൽ iL10 iL2 ആയിരിക്കും അത് 12 ആമ്പിയർ ആയിരിക്കും ഇത് യഥാർത്ഥത്തിൽ l L i Leq iL10 iL20 അതായത് 8 4 12 ആമ്പിയർ അതിനാൽ ഇക്വിവാലെന്റ് ഇൻഡക്റ്റൻസ് 4 ഹെൻറിയും പാരലൽ ഇക്വിവാലെന്റ് 4 ഹെൻറിയും ആണ് ഇതാണ് ഞങ്ങൾ VT എടുത്ത ചില പോയിൻറുകൾ എടുത്ത V പ്രായം vt ഇതാണ് നിലവിലെ i3 അത് ഓപ്പൺ ആയ ഉടനെ ഈ 2 സമാന്തര തുല്യത എടുത്തതാണ് ഇതാണ് നിലവിലെ i3 അതിനാൽ ഇത് 8 Ω പ്രതിരോധമാണ് ഇതാണ് തുല്യമായ സർക്യൂട്ട് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ τ Leq R അതിനാൽ Leq 4 ഹെൻറിയും R 8 അതിനാൽ 4 ബൈ 8 48 അതിനാൽ 0 5 സെക്കൻഡ് അതിനാൽ τ 0 5 സെക്കൻഡ് അതിനാൽ i3 പൊതുവേ നമുക്കറിയാം i t tτ അതിനാൽ iLeq 0 12 ആമ്പിയർ ആയ ഈ കറന്റ് ആരംഭിക്കുന്നതിനുള്ള കറന്റ് ആണ് i3 t 5 സെക്കൻഡ് എന്ന് നമ്മൾ ഇതിനു മുൻപ് കണ്ടിരുന്നു ഇത് i3 നുള്ളതാണ് പക്ഷേ i t I0 ആണ് എന്നാൽ നമ്മുടെ സമവാക്യം e t t𝛕 ഈ കേസിൽ 𝛕 0 5 സെക്കൻഡ് ആയതിനാലാണ് ഇത് 2t വരുന്നത് ഈ I0 എന്നാൽ കംബൈൻഡ് ഇൻഡക്റ്ററുകൾ ആണ് ഇവിടുത്തെ പ്രാരംഭ കറന്റ് 12 ആമ്പിയർ ആണ് അതും ഞങ്ങൾ 8 4 12 ആക്കി അത് കൊണ്ട് 12e 2t ആംപിയർ നമുക്കറിയാം t 0 ആണ് അതിനാൽ 8 Ω റെസിസ്റ്റൻസിനു കുറുകെയുള്ള i3 യുടെ മൂല്യം vt i3t ആണ് കാരണം ഈ i3 കറന്റ് സർക്യൂട്ടിൽ നൽകിയിരിക്കുന്ന 8 Ω പ്രതിരോധത്തിലൂടെ ഒഴുകുന്നു അതിനാൽ 8 i3t ഇവിടെ i3 t പകരം വയ്ക്കുക അത് ഗുണിച്ചാൽ അത് 96 e 2 t V ആയിരിക്കും അതിനാൽ ഇവിടെ t 0 എന്ന നിരക്കിൽ t 0 v0 96 V ആയിരിക്കും അതിനാൽ ഇതിനർത്ഥം ഈ സർക്യൂട്ടിലേക്ക് ഉള്ള i 3 അതായത് t 0 ന് ഈ വോൾടേജ് V 90 അല്ലെങ്കിൽ 96 V ആയിരിക്കും അതിനാൽ iL1 t എന്നത് vt L d i d t ആണെന്ന് നമുക്കറിയാം ഇൻഡക്റ്റർ 1 ഇൻഡക്റ്റർ 2 എന്നിവ രണ്ടു പാരലൽ ഇൻഡക്റ്ററുകൾ ആണ് ഇത് നിർമ്മിക്കുമ്പോൾ പൊതുവെ v L di dt ആണ് അതായത് di di 1 L തുടർന്ന് v dt ഇതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ 1 L എന്നാൽ v dt ആണ് അതിനാൽ ഇത് i 3 v ഉം ഇത് ഇൻഡക്റ്റർ 1 ഉം ഇത് L1 ഉം ആണ് എന്നാൽ ഇതിനുശേഷം iL10 ഉണ്ട് കാരണം പ്രാരംഭ കറന്റ് 4 ആമ്പിയർ ഉണ്ടായിരുന്നു നമ്മൾ എന്ത് കൊണ്ടാണ് ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ ഇടുന്നതു അതിനാൽ അല്ലെങ്കിൽ ഇത് ഒരു ചോദ്യമാണ് ഈ വീഡിയോ പ്രഭാഷണത്തിലൂടെ കടന്നുപോകുമ്പോൾഇതിനുള്ള ഉത്തരം നമുക്ക് പ്രതീക്ഷിക്കാം അതിനാൽ ഈ 1 അല്ലെങ്കിൽ 2 കാര്യങ്ങൾ ശരിയായി ഉത്തരം നൽകുമോ ഇല്ലയോ എന്നറിയാൻ ഞാൻ ഫോറത്തിൽ ഇടുന്നു ആ സമയത്ത് നമ്മൾ അതിനുള്ള ഉത്തരം മറ്റു വിധത്തിൽ കാണും എല്ലാം എന്റെ ഭാഗത്ത് നിന്ന് എല്ലാം പറയാൻ ശ്രമിക്കുന്നു എല്ലാം പറയാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നു പക്ഷേ ഇത് 1 അല്ലെങ്കിൽ 2 ആണ് ഞാൻ വിചാരിക്കുന്നു അതുപോലെ ഈ 8 ആമ്പിയർ iL108 ആമ്പിയർ ആണ് അതായതു 1 6 9 6 e 2t ആമ്പിയർ ഇത് t 0 ന് തുല്യമാണ് സമാനമായി 2 കപ്പാസിറ്ററുകൾ സീരീസിലായിരിക്കുമ്പോഴും ഇതേ ചോദ്യം ഉണ്ടായിരുന്നു അതുപോലെ iL2 5 ഹെൻറി L1 5 ഹെൻറിയായിരുന്നു ഇവിടെ ഇത് 20 ഹെൻറിയാണ് അതിനാൽ നമുക്ക് ഇങ്ങിനെ എഴുതാം 0t96 e 2t dt ആണ് അതിനാൽ iL2 0 അതിനാൽ ഇവിടെയും ചിഹ്നം ഉണ്ട് ഇത് എന്തുകൊണ്ടാണെന്നതിനുള്ള ചോദ്യമാണിത് എല്ലാം ചേർത്ത് സമന്വയിപ്പിക്കുകയും ലളിതമാക്കുകയും iL20 പ്രാരംഭ കണ്ടിഷൻസ് കൊടുക്കുകയും ചെയ്താൽ ഇത് 4 ആമ്പിയർ ആണെന്ന് നമുക്ക് കിട്ടും ഇവിടെ 4 ആമ്പിയർ ഇടുക അപ്പോൾ iL2t ന്റെ മൂല്യം iL2t 1 6 2 4e 2t ആമ്പിയർ ആയിരിക്കും പ്രശ്നം വളരെ ലളിതമാണ് പക്ഷേ iL1 ഉം iL2 ഉം എന്തുകൊണ്ട് ' ' ചിഹ്നം ഇത് ഒരു ചോദ്യമാണ് ഈ i3vt എന്നത് t 0 ൽ എടുക്കുമ്പോഴെല്ലാം ഇത് ഇത് ഉണ്ടാകുന്നു അതിനർത്ഥം ഈ സ്വിച്ച് തുറക്കുമ്പോൾ നമുക്കുള്ള i3 ഇതാണ് ഇത് vt ആണ് ഇതേ i 3 ഇതിലൂടെയും ഇതിലൂടെയും ഒഴുകുന്നു അതിനാലാണ് iL12 iL22 എന്നിവയ്ക്ക് പ്രാരംഭ കറന്റ് നൽകുന്നത് നമുക്ക് പിന്നെ വരുന്ന ഒരു സംശയം എന്താണെന്നു വെച്ചാൽ എന്ത് കൊണ്ട് iL എന്ന് പറയാതെ iL10 iL20 എന്ന് പറയുന്നു ഇത് ഒരു ചോദ്യമാണ് ഈ കേസിലെ മറ്റൊരു ഉദാഹരണം ഉദാഹരണം 7 സർക്യൂട്ടിലെ സ്വിച്ച് വളരെ സമയം ആയി t 0 വരെ ക്ലോസ്ഡ് ആയിരുന്നു t0 ആയപ്പോൾ സ്വിച്ച് ഓപ്പൺ ആയി t യുടെ മൂല്യം t0 ആയിരിക്കുമ്പോൾ കണ്ടെത്തണം അതെ പോലെ സ്വിച്ച് ക്ലോസ് ആയിരുന്ന ടൈം t യും കണ്ടെത്തേണ്ടതുണ്ട് ഈ സ്വിച്ച് വളരെക്കാലം അടച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും സ്വിച്ച് വളരെക്കാലം അടച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇൻഡക്റ്റർ ഒരു DC സർക്യൂട്ട് എന്നത് പോലെ പ്രവർത്തിക്കും കാരണം ഇത് ഒരു DC ഉറവിടമായതിനാൽ അത് ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും ഈ റെസിസ്റ്റൻസിലൂടെ വൈദ്യുത പ്രവാഹം ഒഴുകും എന്നതിനാൽ ഈ റെസിസ്റ്റൻസ് പൂർണ്ണമായും ഒറ്റപ്പെടും കാരണം ആ കറന്റ് ഫ്ലോ മറ്റൊരു പാത സ്വീകരിക്കും ഇതാണ് സ്വിച്ച് ഇത് വളരെ സമയമായിട്ടു ക്ലോസ്ഡ് ആയിരുന്നു അതിനാൽ ദീർഘനേരം സ്വിച്ച് അടയ്ക്കുമ്പോൾ DC ക്ക് ഇൻഡക്റ്റർ ഒരു ഷോർട്ട് സർക്യൂട്ട് പ്രവർത്തിക്കും അതേസമയം കപ്പാസിറ്റർ ഓപ്പൺ സർക്യൂട്ടായി പ്രവർത്തിക്കും അങ്ങനെയാണെങ്കിൽ സർക്യൂട്ട് എങ്ങനെയെന്ന് കാണുക ഇത് അതിന്റെ ഇക്വിവാലെന്റ് സർക്യൂട്ട് ആണ് ഈ ഇൻഡക്റ്റർ ഷോർട്ട് സർക്യൂട്ട് ആയതിനാൽ ഈ 7Ω ഉണ്ടാകില്ല ഇത് വഴി ഒരു വൈദ്യുതധാരയും പ്രവഹിക്കില്ല അതിനാൽ സർക്യൂട്ട് ഇതുപോലെയാകും അതുകൊണ്ട് ഇത് 4 V ആകും നിലവിലെ i1 ഉം ഇത് വഴി ആണ് ഒഴുകുന്നത് ഈ 5Ω 2Ω എന്നിവ ഈ വൈദ്യുതധാരയിൽ സമാന്തരമാണ് അതിനെ it എന്ന് വിളിക്കാം നിലവിലെ i1 ലഭിക്കുന്നതിന് ഇത് ലളിതമായ DC സർക്യൂട്ടാണ് കറന്റ് i1 നേടുന്നതിന് ഈ 5 Ω 2Ω എന്നിവ സമാന്തരമാണ് അവ ഈ 3Ω റെസിസ്റ്ററിനു സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് R ഇക്വിവാലെന്റ് 3 5 2 5 2 അതായത് 3 10 7Ω ആയിരിക്കും ഇത് Req അതിനാൽ i1 എന്നാൽ 4 3 107 ആമ്പിയർ ആയിരിക്കും കാരണം ഈ ഉറവിടം 4 V ആണ് ഇപ്പോൾ i1 4 3 10 7 2831 ആമ്പിയർ ഇപ്പോൾ ഈ കറന്റ് ഡിവിഷൻ 5 മുതൽ 5 2 i 1 ആയിരിക്കും അങ്ങിനെ i1 ന്റെ മൂല്യം കണ്ടു പിടിച്ചു അതിനാൽ it t യുടെ അടിസ്ഥാനത്തിലായിരിക്കും അത് t യുടെ ഒരു ഫങ്ക്ഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ കറന്റ് ഡിവിഷനായിരിക്കും ഉള്ളത് ഈ 2 Ω പ്രതിരോധത്തിലൂടെ ഒഴുകുന്ന വൈദ്യുതധാര എന്താണ് അത് it 5 5 2 i1t നിലവിലെ ഡിവിഷൻ 57 i 1t ആണോ ഈ സാഹചര്യത്തിൽ ഇത് 5 5 2 i1 ആണ് ഞാൻ ലളിതമായി ഇത് എഴുതുന്നു അതായതു t0 ന് 203 ആമ്പിയർ ഇത് ഇനിഷ്യൽ കണ്ടീഷൻ ആണ് ഒരു ഇൻഡക്റ്ററിലൂടെയുള്ള വൈദ്യുതധാര തൽക്ഷണം മാറാൻ കഴിയില്ല അതായത് I0 I0 2031 ആമ്പിയർ T 0 ന്റെ ഇനിഷ്യൽ കണ്ടീഷൻ ആണ് ഇത് അതായതു സ്വിച്ച് ഓപ്പൺ ആയി ഇവിടെ I3 എന്ന ഉറവിടം വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട് t 0 ഇൽ സ്വിച്ച് ഓപ്പൺ ആയിരിക്കുന്നു സ്വിച്ച് ഓപ്പൺ ആയിരിക്കുന്നു എന്നതിനർത്ഥം ഈ ഭാഗം ഇല്ല എന്നാണ് ഈ ഭാഗം ഇല്ലെങ്കിൽ സർക്യൂട്ട് എങ്ങനെയെന്ന് നോക്കാം ഈ സാഹചര്യത്തിൽ ഇതാണ് it അവിടെ 3 ഹെൻറി ഇൻഡക്റ്റർ ഉണ്ട് കൂടാതെ ഈ 2Ω ഉം 5Ω ഉം സീരീസിലായിരിക്കും അതിനർത്ഥം ഇത് 2 5 എന്നാണ് ഇത് രണ്ടു 7Ω ആണ് ഈ 7 Ω ഉം 7Ω ഉം സമാന്തരമാണ് അതിനാൽ തുല്യമായത് 7 7 7 7 ആയിരിക്കും യഥാർത്ഥത്തിൽ 72 Ω അതായതു ഇക്വിവാലെന്റ് റെസിസ്റ്റൻസ് 72 Ω ആണ് അപ്പോൾ τ എന്നാൽ 1 R ആയിരിക്കും ഏത് സമയത്തും L എന്നാൽ 3 ഹെൻറിയാണ് ഈ സാഹചര്യത്തിൽ Req 4914 അതായത് 72 Ω ആയിരിക്കും അതിനാൽ ടൈം കോൺസ്റ്റന്റ് l Req ആണ് അതിനാൽ 349 14 അതായതു 67 സെക്കൻറ് വരെ അങ്ങനെ it τ ആണ് അതിനാൽ അത് 2031 ഉം τ 6 ന് 7 സെക്കൻഡ് പകരക്കാരനും 2031 e t 7 t6 ആമ്പിയർ എന്ന് ലഭിക്കും t 0 ആയിരിക്കുന്ന സമയത്തു it 0 645 e t 7t 6 ആംപിയർ ആയിരിക്കും സ്വിച്ച് ദീർഘനേരം അടച്ചിട്ടുണ്ടെങ്കിൽ ആ ഇൻഡക്റ്റർ ഒരു ഷോർട്ട് സർക്യൂട്ടായി പ്രവർത്തിക്കും കപ്പാസിസിറ്റർ ഓപ്പൺ സർക്യൂട്ട് ആയി ഡിസിക്ക് വേണ്ടി പ്രവർത്തിക്കും അതിനാൽ ഈ ലളിതമായ പ്രശ്നം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അതിനാൽ അടുത്തത് ചിത്രം 22 ൽ കാണിച്ചിരിക്കുന്ന സർക്യൂട്ടാണ് ഇവിടെ നമുക്ക് ix vx ഉം I ഉം നിർണ്ണയിക്കേണ്ടതുണ്ട് vx എന്നാൽ ഈ 3 Ω റെസിസ്റ്റൻസിൽ കൂടി ഉള്ള i3 എന്നും നമുക്ക് ഇതിൽ നിന്നും മനസിലാക്കാം ഇത് എല്ലായ്പ്പോഴും i ആയിരിക്കുമോ അതായത് ഇൻഡക്റ്ററിലെക്കു ഒഴുകുന്ന കറന്റ് ഇവിടെ സ്വിച്ച് വളരെ സമയം തുറന്നിരുന്നുവെന്ന് അനുമാനിക്കുന്നു അതിനാൽ വളരെക്കാലം സ്വിച്ച് തുറന്നിട്ടുണ്ടെങ്കിൽ ആ പ്രാരംഭ അവസ്ഥ കാണുന്നതിന് ആദ്യം ശ്രദ്ധിക്കുക സ്വിച്ച് ഓപ്പൺ ആകുന്ന സമയത്തെ സർക്യൂട്ട് ഇതായിരിക്കും കാരണം സ്വിച്ച് ദീർഘനേരം തുറന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഇത് ഒരു DC V 100 10 V ആണെന്നും ഇൻഡക്റ്റർ ഒരു ഷോർട്ട് സർക്യൂട്ടായി പെരുമാറുന്നുവെന്നും അതിനാൽ ഇത് ഹ്രസ്വമാണെന്നും ആണ് അതിനാൽ ആ സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും അത് വളരെക്കാലം തുറന്നിരിക്കുകയാണെങ്കിൽ കറന്റ് ഇതുപോലെ പ്രവഹിക്കുകയും എന്നാൽ 6 Ω പ്രതിരോധത്തിൽ കറന്റ് ഉണ്ടാകില്ല കാരണം ഇത് ഒരു ഷോർട്ട് സർക്യൂട്ട് പോലെ പ്രവർത്തിക്കുന്നു അതിനാൽ ഇവിടെ കറന്റ് ഉണ്ടാകില്ല അതിനാൽ കറന്റ് സ്വീകരിക്കുന്ന പാത ഇതായിരിക്കും ഇത് ഇതുപോലെ പോകും അതിനാൽ ix 0 ലേക്ക് പ്രാരംഭ കറന്റ് 0 ഉം ഇൻഡക്റ്റർ പ്രാരംഭ കറന്റിലൂടെ 2Ω ഉം 3Ω ഉം ആയിരിക്കും ഇത് വളരെക്കാലമായി തുറന്നിരിക്കുന്നു t 0 ൽ മാത്രമേ ഇത് അടച്ചിട്ടുള്ളൂ അതിനാൽ പ്രാരംഭ കറന്റ് I0 1002 3 അതായത് 20 ആമ്പിയർ അതാണ് ഇൻഡക്ടറിലേക്ക് ഒഴുകുന്ന പ്രാരംഭ വൈദ്യുതധാര അതിൽ ix0 യുടെ മൂല്യം 0 ആയിരിക്കും അതിനാൽ i3 vx 0 യുടെ ഇനിഷ്യൽ മൂല്യം 3 20 ആയിരിക്കും ഇത് 60 V ആയിരിക്കും അതായത് പ്രാരംഭ V vx0 എന്താണെന്ന് കണ്ടെത്തണമെങ്കിൽ അത് 3 20 അതായത് 60 V അതിനാൽ ഇത് ഞാൻ വരച്ച സർക്യൂട്ട് ആണ് അതിനാൽ 6Ω പൂർണ്ണമായും ഒറ്റപ്പെട്ടു സ്വിച്ച് വളരെക്കാലം തുറന്നിരിക്കുമ്പോൾ ഇവിടെ വൈദ്യുതപ്രവാഹം ഉണ്ടാകുന്നില്ല ഈ 2Ω 3Ω ആണ് സീരീസിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അതിനാൽ ix 0 0 ix 0 ആയിരിക്കും ഇനിഷ്യൽ വാല്യൂ യഥാർത്ഥത്തിൽ ഒരു സ്വിച്ച് ഈ കാര്യത്തിനായി അടച്ചതാണ് അതിനാൽ t എഴുതുന്നതിനു പകരം I എന്ന് എഴുതിയാൽ മതി ഇനിഷ്യൽ കണ്ടീഷനിൽ I ക്കു പകരം i3 എന്ന് എഴുതാം അതിനാൽ I0 20 ആംപിയറും V0 60V ആയി കാരണം ഇത് ടി 0 എന്നതിനാണ് അതിനാൽ ഇവിടെയുള്ള എല്ലാ ടി 0 യിലും ഇത് നിർമ്മിക്കാൻ കഴിയും ഇതും സാധുതയുള്ളതാണ് പക്ഷേ ഇത് I0 v x 0 എന്നിവയ്ക്കായി നിർമ്മിക്കുക ഇവ രണ്ടും സാധുവാണ് പക്ഷേ ഇപ്പോഴും ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ഞങ്ങൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് അവഗണിക്കുന്നു ഇതിൽ ഒരെണ്ണം പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ I t v x t എന്നിവ പരാമർശിച്ചില്ലെങ്കിൽ I0 v0 എന്നിവയുടെ പ്രാരംഭ മൂല്യം അതിനാൽ അതുകൊണ്ടാണ് I0 ഞാൻ ഇത് 20 ആമ്പിയർ എഴുതുന്നത് അതാണ് പ്രാരംഭ കറന്റ് അതിനാൽ ഞാൻ അത് മായ്ക്കട്ടെ ഇപ്പോൾ t 0 ന് സ്വിച്ച് അടച്ചിരിക്കുന്നു അതിനാൽ i3 ഉറവിടം ഷോർട്ട് സർക്യൂട്ട് ആണ് അതിനർത്ഥം t 0 ലെ സർക്യൂട്ട് സ്വിച്ച് അടയ്ക്കുമ്പോൾ ഈ i3 ഉറവിടം ഷോർട്ട് സർക്യൂട്ട് ആയതിനാൽ ഇത് ഹ്രസ്വമാണ് അതിനാൽ ഈ അവസരത്തിൽ നാം ഇതിനെ എക്വിവാലെന്റ സർക്യൂട്ട് എന്ന് വിളിക്കും ആ സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും എക്വിവാലെന്റ സർക്യൂട്ട് i3 ഉറവിടം ഷോർട്ട് സർക്യൂട്ട് ആണ് അതിനാൽ ഈ 3 Ω 6 Ω റെസിസ്റ്റർ സമാന്തരമാണ് ഇതിന്റെ ഇക്വിവാലെന്റ എന്ന് പറയുന്നത് 6 3 6 3 ആയിരിക്കും അതായതു 2 Ω ഇത് ഒരു ഹെൻറി ഇൻഡക്റ്ററാണ് പാരലൽ റെസിസ്റ്റൻസ് കണക്കാക്കുന്നതിനൊപ്പം ഇൻഡക്റ്റർ ടെർമിനലിൽ ഇത് ഈ R തെവെനിൻ പോലെയാണ് അത് 2 റെസിസ്റ്ററുകളല്ലാതെ മറ്റൊന്നുമല്ല 3 6 6 2 τ L R Thevenin L എന്നത് 1 ഹെൻറിയാണ് ഇവിടെ L ന് 1 ഹെൻറിയും 2 Rthevenin എന്നാൽ 2 ഉം നൽകിയിരിക്കുന്നു അതിനാൽ പകുതി സെക്കൻഡ് τ പകുതി സെക്കൻറ് നമുക്കറിയാം it I0 ആണ് അതെ പോലെ I2 I0 e ttτ ആണ് ഉറവിടം p സർക്യൂട്ട് ആണെന്ന് നമുക്കറിയാം അതിനാൽ I0 20 τ പകുതി അതിനാൽ t 0 എന്നതിനായി e t 2 t ആമ്പിയർ നമുക്കറിയാം vxt vLt 0 ഇപ്പോൾ ഇവിടെ സർക്യൂട്ടിൽ KVL പ്രയോഗിക്കുക ഇത് v v x vL 0 ആണ് അതിനാൽ സർക്യൂട്ടിൽ കെവിഎൽ പ്രയോഗിക്കുക അതിനാൽ v x t vLt L di d t ഇവിടെ L 1 ഹെൻറി 1 ആണ് ഇതിന്റെ ഡെറിവേറ്റീവ് 1 ആണ് അതായതു 20 2 e t 2t നമുക്ക് മനസിലാക്കാം t 0 ആയിരിക്കുന്ന സമയത്തു vx t 40 e t 2 t V ആയിരിക്കും അതിനാൽ ix t vLt 6 ആകും കാരണം i 3 അനുസരിച്ചു ആണ് vLt കിട്ടുന്നത് ഇവിടെ ഈ 6 Ω ഉം 1 ഹെൻറിയും സമാന്തരമാണ് അതിനാൽ ഇതിലുടനീളം vL ആണ് ix പൊതുവായി vL എന്നാണ് എഴുതുക t എഴുതുന്നില്ല ഇതിനെ 6 Ω റെസിസ്റ്റൻസ് കൊണ്ട് ഹരിച്ചാൽ ഇത് വഴി ഉള്ള കറന്റ് മനസിലാക്കാം ഈ സാഹചര്യത്തിൽ ix t vLt 6 എന്ന് എഴുതുന്നു എന്നാൽ vLt vLt L di ഇത്രയധികം ലഭിച്ചു അതിനാൽ vxt എന്നാൽ ഇത്ര ആണ് കൂടാതെ vLt ഉം എന്നാൽ ഇത്ര ആണ് എന്ന് നമുക്ക് ലഭിക്കുന്നു എന്തുകൊണ്ട് ഇവിടെ ' ' സിംബൽ വരുന്നു എന്ത് കൊണ്ടെന്നാൽ ഈ vxt vLt ആണ് കൂടാതെ നമുക്ക് vxt ക്കു ഈ വാല്യൂ ആണ് ലഭിച്ചത് അതിനർത്ഥം vLt vxt ആണെന്നാണ് ഇത് യഥാർത്ഥത്തിൽ 40e t2t ആണ് അതുകൊണ്ടാണ് ' ' ചിഹ്നം അവിടെ അതിനാൽ 40 e t 2t 6 ixt പിന്നെ 203 e t 2 t ആമ്പിയർ ഇതാണ് ഇത് എല്ലായ്പ്പോഴും സജ്ജീകരിച്ചിരിക്കുന്നത് അതിനർത്ഥം എല്ലാ t 0 നും ix t 0 ആമ്പിയർ ആയിരിക്കും അതെ പോലെ t 0 നും ix t 203 et 2 t ആമ്പിയർ ആയിരിക്കും ഈ മാർഗ്ഗനിർദ്ദേശം എല്ലാ സമയത്തും എഴുതുന്നു കാരണം 't' എന്ന സമയത്തിന്റെ വാല്യൂ ' ∞' മുതൽ '∞'വരെ ഉള്ളത് അതുകൊണ്ടാണ് 0 ആമ്പിയറിന് ഇത് ഈ t 0 പോലെയാണ് അതെ പോലെ t 0 ആകുമ്പോൾ ix t 203 ആണ് ഇതിനർത്ഥം എല്ലാ t 0 നും ix t 0 ആമ്പിയർ t 0 നും ix t 203 e t 2t ആമ്പിയർ ആയിരിക്കും അപ്പോഴൊക്കെ vxt 60V ആയിരിക്കും ഇതിന്റെ ഇനിഷ്യൽ വാല്യൂ 0 ആയിരിക്കും എന്നാൽ എപ്പോഴൊക്കെ t 0 ആയിരിക്കുന്നുവോ അപ്പോഴൊക്കെ ഇതിന്റെ വാല്യൂ 60V ആയിരിക്കും അതെ പോലെ t0 ആയിരിക്കുന്ന സമയത്തു ixt ടെ വാല്യൂ 20A ആണ് ബാക്കി സമയങ്ങളിൽ സ്വിച്ച് വളരെക്കാലം തുറന്നിരുന്നുവെന്നും 20 e t 2t ആമ്പിയർ 40 0 ആണെന്നും നമുക്ക് മനസിലാക്കാം എല്ലായ്പ്പോഴും ഉത്തരം ∞ മുതൽ ∞ വരെ സമയബന്ധിതമായി എഴുതുന്നതെന്തും പൊതുവായി ഈ വഴി എഴുതുക ഇത് വരെ നമ്മൾ കണ്ടതെല്ലാം സോഴ്സ് ഫ്രീ സർക്യൂട്സ് ആയിരുന്നു അടുത്തതായി ഒരു സിംഗുലാരിറ്റി ഫങ്ക്ഷന് ഉള്ളത് കാണാം അതായതു നമ്മുടെ സർക്യുട്ടിൽ സോഴ്സ് കൂടി വരും എന്നാൽ അതിനുമുമ്പ് നമ്മൾ സിംഗുലാരിറ്റി ഫംഗ്ഷനെക്കുറിച്ച് പഠിക്കും സിംഗുലാരിറ്റി ഫംഗ്ഷൻ എന്നത് ഒന്നുകിൽ നിർത്താത്തതോ അല്ലെങ്കിൽ നിരന്തരമായ ഡെറിവേറ്റീവുകളോ ഉള്ള പ്രവർത്തനമാണ് സിംഗുലാരിറ്റി ഫംഗ്ഷനെക്കുറിച്ചുള്ള ഒരു അടിസ്ഥാന ധാരണ റെസ്പോൺസ്ന്റെ അർത്ഥം മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും പ്രത്യേകിച്ചും RC അല്ലെങ്കിൽ RL സർക്യൂട്ടിന്റെ സ്റ്റെപ്പ് റെസ്പോൺസ് അതിനാൽ സിംഗുലാരിറ്റി ഫംഗ്ഷനെ സ്വിച്ചിംഗ് ഫംഗ്ഷൻ എന്നും വിളിക്കുന്നു സ്വിച്ചിംഗ് ഫംഗ്ഷന് സർക്യൂട്ട് വിശകലനത്തിന് വളരെ ഉപയോഗപ്രദവുമാണെന്ന് നമുക്ക് കാണാം സർക്യൂട്ട് വിശകലനത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന 3 സിംഗുലാരിറ്റി ഫംഗ്ഷൻ ഇവയാണ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ യൂണിറ്റ് ഇംപൾസ് യൂണിറ്റ് റാമ്പ് എന്നിവയാണ് അതിനാൽ ഈ 3 ഫംഗ്ഷനുകളെക്കുറിച്ചുള്ള അടിസ്ഥാന ധാരണ ആദ്യ ഓർഡർ സർക്യൂട്ടിന്റെ അർത്ഥം മനസ്സിലാക്കാൻ സഹായിക്കുന്നു അതിനാൽ ഒരു സ്വതന്ത്ര DC i3 അല്ലെങ്കിൽ നിലവിലെ ഉറവിടത്തിന്റെ പെട്ടെന്നുള്ള ആപ്ലിക്കേഷനെ തുടർന്ന് ആദ്യം നമ്മൾ ഇത് ഓരോന്നായി മനസ്സിലാക്കും ഉറവിടം ആ സമയത്ത് സർക്യൂട്ടിൽ ഉണ്ടെന്നും അത് വെച്ച് ട്രാൻസിയെന്റ അനാലിസിസ് നടത്താമെന്നും നമുക്ക് മനസിലാക്കാം ആദ്യം അടിസ്ഥാനപരമായി യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ റാമ്പ് ഫംഗ്ഷൻ സ്റ്റെപ്പ് ഫംഗ്ഷൻ ഇത്തരത്തിലുള്ള സിംഗുലാരിറ്റി ഫംഗ്ഷൻ ഒക്കെ എല്ലാ സർക്യൂട്ട് അനാലിസിസിലും കണ്ട്രോൾ സിസ്റ്റത്തിലും കൂടുതലായി ഉപയോഗിക്കുന്നതായി നമുക്കറിയാം അതിനാൽ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനായി t 0 ന് 0 ഉം 0 t 0 ന് 1 ഉം ആണ് അതിനാൽ t 0 ന് u 0 ഉം t 0 ന് u 1 ഉം ആണ് അതിനാൽ ഇത് ഞങ്ങൾ യൂണിറ്റ് ഫംഗ്ഷൻ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ നിർവചിക്കും എന്നാൽ ഒരു കാര്യം അവിടെ t 0 എന്ന് നിർവചിക്കപ്പെട്ടിട്ടില്ല എന്നാൽ അത് t 0 ൽ നിർവചിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അത് 0 t 0 അത് 0 t 0 1 ആണ് 0 ഇൽ നിന്നു 1 ലേക്കുള്ള മാറ്റം വളരെ പെട്ടെന്നാണ് പോരാത്തതിന് ഇതൊരു ഡൈമെൻഷൻലെസ്സ് ക്വാണ്ടിറ്റി ആണ് ചിത്രം 25 യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ കാണിക്കുന്നു യൂണിറ്റ് ടൈം ഫംഗ്ഷൻ നിർവചിക്കുന്നതിനുള്ള യൂണിറ്റ് ഫംഗ്ഷൻ ഡെഫ് ടൈം ഡെഫ് ഇതാണ് അതിനാൽ ഇത് യൂണിറ്റ് ടൈം ഫംഗ്ഷനാണ് പക്ഷേ t 0 ൽ ഓർക്കുക ഇത് നിർവചിക്കപ്പെട്ടിട്ടില്ല അതിനാൽ ഈ സാഹചര്യത്തിൽ u നിർവചിച്ചിരിക്കുന്നത് ഇത് യൂണിറ്റി ആണെന്നും ഇത് നമ്മൾ വരച്ചതുപോലെയാണെന്നും ആണ് കാരണം t 0 ന് ഇത് 0 ആണ് പക്ഷേ ടി 0 ന് ഇത് നിർവചിക്കപ്പെട്ടിട്ടില്ല അതിനാൽ t 0 ന് പകരം t i3 ൽ പെട്ടെന്നുള്ള മാറ്റം സംഭവിക്കുകയാണെങ്കിൽ ആ i3 0 ആണ് ഒരു t i3 ന് i3 0 ആണെങ്കിൽ t i3 ന് ut i3 0 ആയിരിക്കും ti3ക്കു അത് 1 ആയിരിക്കും എന്ന് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എഴുതാം t i3ൽ അത് നിർവചിക്കപ്പെട്ടിട്ടില്ല അതിനാൽ 29 സൂചിപ്പിക്കുന്നത് u i3 സെക്കൻഡ് വൈകുകയും അത് ചിത്രത്തിൽ കാണിക്കുകയും ചെയ്യുന്നു എന്നാണ് ഇത് ഇതുപോലെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ കാര്യം i 3 ഉം ഇത് i 3 ഉം ഇത് 1 ഉം ആണ് u i3 i3 സെക്കൻഡ് ഡിലേ ആയി ഇപ്പോൾ ഇത് i3 വികസിപ്പിച്ചാൽ അത് എങ്ങനെയിരിക്കും അടുത്തത് t i3 ലെ പെട്ടെന്നുള്ള മാറ്റം ആണെങ്കിൽ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ u i3 ആയി തീരും അത് t i 3 ഉം 1 ന് t i 3 ക്കും ആണ് അങ്ങിനെ വരുന്നത് അതിനാൽ ഈ സമവാക്യം 30 കാണിക്കുന്നത് u i3 സെക്കൻഡ് മുന്നേറുകയും ചിത്രം 27 ൽ കാണിക്കുകയും ചെയ്യുന്നു അതിനാൽ അത് അഡ്വാൻസ് ആണ് ഇതാണ് i3 ഇത് 1 ആണ് ഇത് i3 ആണ് ഇതിന്റെ വാല്യൂ 0 ആണ് ഇതാണ് ആ തിക്ക് ലൈൻ ഇത് i 3 ഉം ഇത് ഇത് ut i 3 എന്ന ടൈം ആണ് അതിനർത്ഥം യൂണിറ്റ് സ്റ്റെപ്പ് ഫങ്ക്ഷന് i3 അഡ്വാൻസ് ആയി എന്നാണ് ഇത് u ഇത് i3 ഇതാണ് പ്ലോട്ട് ഇത് i3 അഡ്വാൻസ് ആക്കിയാൽ ut i 3 ആണ് അതിനാൽ പ്ലോട്ട് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ കാണിക്കും അതിനാൽ ഒരു ഔട്ട്പുട്ടിനെ പ്രതിനിധീകരിക്കുന്നതിന് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഉപയോഗിക്കാം നിലവിലെ അല്ലെങ്കിൽ i3 ലെ പെട്ടെന്നുള്ള മാറ്റം ഡിജിറ്റൽ കമ്പ്യൂട്ടറുകളുടെയും നിയന്ത്രണ സിസ്റ്റങ്ങളുടെയും സർക്യൂട്ടിൽ ഇത്തരത്തിലുള്ള പെട്ടെന്നുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നു ഉദാഹരണത്തിന് i3 നമുക്ക് t i3 ന് i3 vt 0 ഉം t i3 ന് vt v0 ഉം പരിഗണിക്കാം ഇത് 3 സമവാക്യം 31 ആണെന്ന് കരുതുക ഈ i3 നമ്മൾ ഇങ്ങനെയാണെങ്കിൽ എഴുതുന്നു 0 t i3 v0 t i3 ഇതുപോലെ എഴുതുന്നു ഇത് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിൽ vt v0 ut i3 ആയി പ്രകടിപ്പിക്കാം ഈ സ്റ്റെപ്പ് ഫങ്ക്ഷന്റെ അടിസ്ഥാനത്തിൽ ut i3 t i3 ന് ഇത് 0 ഉം t i3 ന് ഇത് 1 ഉം ആയിരിക്കും ഇതിനെ u t കൊണ്ട് ഗുണിച്ചാൽ ut i 3 ആണ് ലഭിക്കുന്നത് അതിനാൽ ഈ i3 ഇതുപോലെ നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ut i3 എന്ന് എഴുതുന്നു t i3 ന് അത് 0 ആയിരിക്കും അതിനാൽ vt ആയിരിക്കും 0 അതെ പോലെ t i3 ആണെങ്കിൽ utut i3 ടെ മൂല്യം 1 ആയിരിക്കും അതിനാൽ ആ സാഹചര്യത്തിൽ vt v0 ആയിരിക്കും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും t i 3 ആയിരിക്കുമ്പോൾ u t i 3 0 ആയിരിക്കും ലഭിക്കുക അതിനാൽ ആ സാഹചര്യത്തിൽ vt എന്നാൽ v0 ആയിരിക്കും ഇപ്പോൾ t i 3 u t i 3 1 അതിനർത്ഥം ഇത് v0 ആയിരിക്കും അതിനാൽ ഈ സമവാക്യം 31 മുഴുവനും ഈ രൂപത്തിൽ എഴുതാം ഈ സമവാക്യത്തെ 32 എന്ന സമവാക്യത്താൽ പ്രതിനിധികരിക്കാം അതിനാൽ t എന്നത് t 0 ആണെങ്കിൽ i3 0 ആണെങ്കിൽ ഈ 32 നെ vt v0 u t എന്ന് എഴുതാം അതിനാൽ ഇതുപയോഗിച്ച് സർക്യൂട്ട് മാത്രം അതിനാൽ ചിത്രം 28 a ഒരു i 3 ഉറവിടം v0 u t കാണിക്കുന്നു അത് തുല്യമായ സർക്യൂട്ട് കാണിക്കുന്നു അതിനാൽ ഇത് v0 ut ആണ് i 3 ഉറവിടം t 0 ന് നൽകിയിട്ടുണ്ട് അത് u i 3 ഉം t 0 ന് അത് v0 ഉം ആയിരിക്കും അതിനാൽ സ്വിച്ച് സ്ഥാനം ഈ സോ 1 2 പോലെയാകുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ 0 ആണ് കാരണം 1 ഉം 2 ഉം ഷോർട്ട് സർക്യൂട്ട് ആണെങ്കിൽ 1 ആണെങ്കിൽ 1 ഉം 2 ഉം ഇതുപോലെയാക്കുന്നു അതിനാൽ സ്വിച്ച് സ്ഥാനം ഇതുപോലെയാണെങ്കിൽ അത് ഷോർട്ട് സർക്യൂട്ട് ആണ് അതിനാൽ ഉദാഹരണത്തിന് t0 ആണെങ്കിൽ ഈ സാഹചര്യത്തിൽ ഔട്ട്പുട്ട് i 3 അല്ലെങ്കിൽ v12 0 ആയിരിക്കും അതായതു v12 v12 vt 0 എന്നാൽ സ്വിച്ച് സ്ഥാനം ഇതിൽ നിന്ന് ഇതിലേക്ക് പോയപ്പോൾ അതായതു ഞാൻ അർത്ഥമാക്കുന്നത് ഇത് കണക്റ്റുചെയ്യുമ്പോൾ അവിടെയുള്ളപ്പോൾ ഇതിനെക്കുറിച്ച് മറക്കുക ആ സമയത്ത് v 12 vt v0 അതിനാൽ ഈ സർക്യൂട്ടിൽ നിന്ന് വരച്ച v0 ഇത് ഇവിടെ നിന്ന് ഇക്വിവാലെന്റ സർക്യുട്ട് ആണ് v0 ഇത് ഒരു സ്വിച്ചിംഗ് ലോജിക്കായി മാറും ഒരു നിമിഷത്തേക്ക് മാത്രം ടെർമിനൽ 1 2 എന്നിവ ഷോർട്ട് സർക്യൂട്ട് ആണ് vt 0 t 0 t 0 എന്നിവയ്ക്കായി ടെർമിനൽ ഒന്നിൽ vt v0 ടെർമിനൽ രണ്ടിൽ v 12 v0 ആയിരിക്കും